ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് നമ്മൾ നേരത്തെ കണ്ടു അവ പലപ്പോഴും നമ്മൾ കണക്കുകൂട്ടാൻ താൽപ്പര്യപ്പെടുന്ന ഫംഗ്ഷനുകൾ നേടുന്നതിന് ഒരു നല്ല മാർഗ്ഗം നൽകുന്നു അക്കങ്ങൾക്കായുള്ള ഇൻഡക്ഷൻ ഇപ്പോൾ നമുക്ക് പരിചിതമാണ് ഉദാഹരണത്തിന് അടിസ്ഥാന കേസ് ആയി എഫ് ഓഫ് 0 എന്ന ഫാക്റ്റോറിയൽ ഫംഗ്ഷൻ നമുക്ക് നിർവചിക്കാം കൂടാതെ ഇൻഡക്റ്റീവ് കേസിന്റെ അടിസ്ഥാനത്തിൽ എഫ് ഓഫ് n ഈക്വൽ റ്റു n ഇന്റു ഫാക്റ്റോറിയൽ n മൈനസ് 1 ആണെന്ന് പറയുന്നു നമ്മൾ കണ്ടത് ലിസ്റ്റുകൾ പോലുള്ള സ്ട്രക്ച്ചറിനായി ഇൻഡക്റ്റീവ് ഫംഗ്ഷനുകളും നിർവചിക്കാം ഉദാഹരണത്തിന് നമുക്ക് അടിസ്ഥാന കേസായി ഒരു ശൂന്യമായ ലിസ്റ്റ് എടുക്കാം കൂടാതെ ഇൻഡക്റ്റീവ് കേസിൽ പ്രാരംഭ ഘടകവുമായി സോർട്ടിങ് പോലെ എന്തെങ്കിലും ചെയ്യാനും ബാക്കിയുള്ളവയ്ക്കൊപ്പം എന്തെങ്കിലും ചെയ്യാനും നമുക്ക് കഴിയും ഇൻസെർഷൻ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ഇൻസെർഷൻ സോർട്ട് നിർവചിക്കാം ശൂന്യമായ കേസിനായുള്ള അടിസ്ഥാന കേസ് isort നമുക്ക് ശൂന്യമായ ലിസ്റ്റ് നൽകുന്നു എന്നിട്ട് നിങ്ങൾക്ക് n ഘടകങ്ങളുള്ള ഒരു ലിസ്റ്റ് അടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യത്തെ ഘടകം വലത്തേക്ക് നീക്കുകയും ബാക്കിയുള്ളവയെ ഇൻഡക്റ്റീവ് രീതിയിൽ അടുക്കുന്നതിന്റെ ഫലമായി നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഫംഗ്ഷൻ ആശ്രയത്വം വിവരിക്കുന്ന ഒരു വളരെ ആകർഷകമായ വഴി ഇതാണ് ഇത് നമ്മൾ ചെറിയ വാല്യൂ കണക്കാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മെ കമ്പ്യൂട്ടിങ് എളുപ്പത്തിൽ ചെയ്യാൻ സഹായിക്കുന്നു ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസിന്റെ പ്രധാന പ്രയോജനം അത് ഒരു റിക്കേഴ്സീവ് പ്രോഗ്രാം നേരിട്ട് നൽകുന്നു എന്നതാണ് ഫാക്റ്റോറിയലിനായുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടു അത് എഫ് ഓഫ് 0 1 ആണ് എഫ് ഓഫ് n ഈക്വൽ റ്റു n ഇന്റു എഫ് ഓഫ് n മൈനസ് 1 ഉം ആണെന്ന് നിർവചിക്കുന്ന ഒരു ഡെഫിനിഷ്യൻ നമ്മൾ കണ്ടു നമുക്ക് ഇത് നേരിട്ട് വായിക്കാം ഏറെക്കുറെ വിവർത്തനം ചെയ്യാം നമ്മൾ ചെയ്ത ഒരേയൊരു കാര്യം നമ്മൾ ചില എറർ കേസുകൾ ശ്രദ്ധിച്ചു അവിടെ ആരെങ്കിലും നെഗറ്റീവ് നമ്പർ നൽകുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും 1 എന്ന് പറയും കൂടാതെ ഒരു ലൂപ്പിലേക്ക് പോകരുത് പൊതുവേ അത്തരം ഇൻഡക്ടീവ് ഡെഫിനിഷ്യൻസ് ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഉത്തരം ലഭിക്കുന്നതിന് പരിഹരിക്കേണ്ട സബ് പ്രോബ്ലെംസ് ഉണ്ടാക്കുക എന്നതാണ് ഉദാഹരണത്തിന് n ന്റെ ഫാക്റ്റോറിയൽ കണക്കുകൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഫാക്റ്റോറിയൽ ഓഫ് n മൈനസ് 1 കണക്കുകൂട്ടലാണ് ഫാക്റ്റോറിയൽ ഓഫ് n മൈനസ് 1 നെ ഫാക്റ്റോറിയൽ ഓഫ് n ന്റെ സബ് പ്രോബ്ലെം ആയി വിളിക്കുന്നു ഇപ്പോൾ ഫാക്റ്റോറിയൽ ഓഫ് n മൈനസ് 1 ഫാക്റ്റോറിയൽ ഓഫ് n മൈനസ് 2 കണക്കുകൂട്ടാൻ ആവശ്യപ്പെടുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയിൻ താഴേക്ക് പോയാൽ ഫാക്റ്റോറിയൽ എൻ സബ് പ്രോബ്ലെംസ് എല്ലാം n നേക്കാൾ ചെറിയ വാല്യൂസിന്റെ ഫക്ടോറിയൽ ആണ് അതുപോലെ ഇൻസെർഷൻ സോർട്ടിങ്ങിനായി പൂർണ്ണമായ ലിസ്റ്റ് അടുക്കുന്നതിന് ലിസ്റ്റിന്റെ ടെയിൽ എന്ന് വിളിക്കുന്ന ആദ്യത്തേത് ഒഴികെയുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ തരംതിരിക്കേണ്ടതുണ്ട് അതാകട്ടെ അതിന്റെ ടെയിൽ വീണ്ടും അടുക്കേണ്ടതുണ്ട് പൊതുവേ നമ്മൾ ഇൻസെർഷൻ സോർട്ട് ചെയ്യുമ്പോൾ ലിസ്റ്റിന്റെ ഒരു ഭാഗം ക്രമീകരിക്കേണ്ടതുണ്ടെന്ന് നമ്മൾ കണ്ടെത്തും നമുക്ക് xi മുതൽ x j വരെ എന്ന് പൊതുവായി പറയാം എന്നാൽ ഈ കേസുകളിലെല്ലാം നമ്മൾ നൽകിയ ഇൻപുട്ട് y അനുസരിച്ച് എഫ് ന്റെ യഥാർത്ഥ വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെ എന്ന് ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് നമ്മോടു പറയുന്നു ഈ സബ് പ്രോബ്ലെംസ് സൊല്യൂഷൻസ് കൂട്ടിച്ചേർത്തു കൊണ്ട് ഉദാഹരണത്തിന് ഫാക്റ്റോറിയലിൽ നിലവിലെ ഇൻപുട്ടിനെ അടുത്ത ചെറിയ ഇൻപുട്ടിന്റെ റിസൾട്ടുമായി ഗുണിച്ച് നമ്മൾ ഇത് സംയോജിപ്പിക്കുന്നു ഇൻസെർഷൻ സോർട്ടിങ്ങിനായി ലിസ്റ്റിന്റെ ടെയിൽ ആയ ചെറിയ ഇൻപുട്ട് റിസൾട്ടിന്റെ കൂടെ ആദ്യത്തെ വാല്യൂ ചേർത്ത് നമ്മൾ ഇത് സംയോജിപ്പിക്കുന്നു നമുക്ക് ഒരു പ്രത്യേക പ്രോബ്ലെം നോക്കാം അത് ഇൻഡക്റ്റീവ് സവിശേഷതകൾ നോക്കുകയും അവ പ്രോഗ്രാമുകളിലേക്ക് അതേപോലെ തന്നെ വിവർത്തനം ചെയ്യുകയും ചെയ്യുമ്പോൾ നാം കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രോബ്ലെത്തെ ഹൈലൈറ്റ് ചെയ്യും ഫിബൊനാച്ചി കണ്ടുപിടിച്ച വളരെ പ്രസിദ്ധമായ ഒരു ശ്രേണിയാണ് ഫിബൊനാച്ചി സംഖ്യകൾ അവ പ്രകൃതിയിൽ സംഭവിക്കുന്നു അവ വളരെ അവബോധജന്യമാണ് നിങ്ങളിൽ ഭൂരിഭാഗവും അവ കണ്ടിട്ടുണ്ട് ഫിബൊനാച്ചി നമ്പറുകൾ 0 1 എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നു 1 പ്ലസ് 0 1 1 പ്ലസ് 1 എന്നത് 2 3 5 എന്നിങ്ങനെയാണ് നിങ്ങൾ മുമ്പത്തെ രണ്ട് നമ്പറുകൾ ചേർക്കുന്നത് തുടരുക നിങ്ങൾ തുടരുക ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് 0 ാമത്തെ ഫിബൊനാച്ചി നമ്പർ 0 ആണെന്ന് പറയുന്നു ആദ്യത്തെ ഫിബൊനാച്ചി നമ്പർ 1 അതിനുശേഷം രണ്ട് മുതൽ മുമ്പത്തെ രണ്ടെണ്ണം ചേർത്ത് n ത് ഫിബൊനാച്ചി നമ്പർ ലഭിക്കും ഫിബൊനാച്ചി നമ്പർ 2 എന്നാൽ ഫിബൊനാച്ചി 1 പ്ലസ് ഫിബൊനാച്ചി 0 ആണ് മുമ്പത്തെപ്പോലെ നമുക്ക് ഇത് ഒരു റിക്കേഴ്സീവ് പ്രോഗ്രാമിലേക്ക് ഇൻഡക്റ്റീവ് ആയി നേരിട്ട് വിവർത്തനം ചെയ്യാൻ കഴിയും നമുക്ക് ഒരു പൈത്തൺ ഫംഗ്ഷൻ fib എഴുതാം N 0 അല്ലെങ്കിൽ 1 ആണെങ്കിൽ റിട്ടേൺ nഎന്ന് നിങ്ങൾ പറയുന്നു n 0 ആണെങ്കിൽ റിട്ടേൺ 0 ആണെങ്കിൽ n 1 ആണെങ്കിൽ നമ്മൾ റിട്ടേൺ 1 നൽകുന്നു അല്ലാത്തപക്ഷം n മൈനസ് 1 n മൈനസ് 2 എന്നിവ ഉപയോഗിച്ച് ഫിബൊനാച്ചിയെ റിക്കേഴ്സീവ് ആയി വിളിക്കുന്നതിലൂടെ നിങ്ങൾ വാല്യൂ കണക്കാക്കുന്നു ഇവ രണ്ടും ചേർത്ത് ഈ വാല്യൂ നൽകുക ഒരു ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസിന്റെ വ്യക്തമായ കേസ് ഇവിടെ കാണാം ഇതിൽ സ്വാഭാവിക റിക്കേഴ്സീവ് പ്രോഗ്രാം ചെയ്യാൻ കഴിയും നമുക്ക് ഒരു വാല്യൂ കണക്കുകൂട്ടി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഈ ഡെഫിനിഷ്യൻസ് ഉപയോഗിച്ച് 5 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക 5 ന്റെ ഫിബൊനാച്ചി നമ്മൾ മറ്റൊരു else ക്ലോസിലേക്ക് പോയി അവിടെ n മൈനസ് 1 ന്റെ അതായത് 4 n മൈനസ് 2 അതായത് 3 എന്നിവയുടെ ഫിബൊനാച്ചി കണക്കുകൂട്ടണമെന്ന് നമ്മൾ പറയും 5 ന്റെ ഫിബൊനാച്ചി ചെയ്യണമെങ്കിൽ കണക്കുകൂട്ടാൻ രണ്ട് പ്രോബ്ലെംസ് ഉണ്ട് 4 ന്റെ ഫിബൊനാച്ചി 3 ന്റെ ഫിബൊനാച്ചി നമ്മൾ ഇവ ചില ക്രമത്തിൽ ചെയ്യുന്നു നമുക്ക് ഇടത്തുനിന്ന് വലത്തോട്ട് പോകാം നമ്മൾ 4 ന്റെ ഫിബൊനാച്ചി തിരഞ്ഞെടുക്കുന്നു ഇത് ചെയ്യണമെങ്കിൽ ഇതേ ഡെഫിനിഷ്യൻസ് പ്രയോഗിച്ചുകൊണ്ട് 3 ന്റെ ഫിബൊനാച്ചി 2 ന്റെ ഫിബൊനാച്ചി എന്നിവ കണക്കാക്കേണ്ടതുണ്ട് അതുപോലെ രണ്ട് സബ് പ്രോബ്ലെംസിന്റെ ഇടതുവശത്തേക്ക് നമ്മൾ പോകുന്നു 3 ന്റെ ഫിബൊനാച്ചിക്ക് 2 ഉം 1 ഉം ആവശ്യമുണ്ട് 2 ന് 1 ഉം 0 ഉം ആവശ്യമാണ് ഇപ്പോൾ 1 0 എന്നിവ ആണെങ്കിൽ ഒരു റിക്കേഴ്സീവ് കോൾ ചെയ്യാതെ തന്നെ പുറത്തുകടക്കാൻ കഴിയും n 0 ന് തുല്യമോ n 1 ന് തുല്യമോ ആണെങ്കിൽ നമ്മൾ വാല്യൂ റിട്ടേൺ നൽകുന്നു നമുക്ക് ഫിബൊനാച്ചി 1 1 ഉം ഫിബൊനാച്ചി 0 0 ഉം ആയി തിരികെ ലഭിക്കുന്നു ഇതുപയോഗിച്ച് നമുക്ക് ഫിബൊനാച്ചി 2 ന്റെ കണക്കുകൂട്ടൽ പൂർത്തിയാക്കാൻ കഴിയും നമുക്ക് വാല്യൂ 1 പ്ലസ് 0 ആണ് അതായത് 1 2 ന്റെ ഫിബൊനാച്ചി 1 ഇപ്പോൾ നമ്മൾ 3 ന്റെ ഫിബൊനാച്ചിയിലേക്ക് മടങ്ങി നമ്മൾ 3 ന്റെ ഫിബൊനാച്ചിക്കായി ഇടത് കേസ് ഫിബൊനാച്ചി 2 കണക്കുകൂട്ടി ഇപ്പോൾ നമ്മൾ വലത് കേസ് കണക്കുകൂട്ടണം എന്നാൽ നാം വീണ്ടും ഒരു അടിസ്ഥാന കേസ് ഫിബനാച്ചി 1 കാണുന്നു അത് 1 നൽകുന്നു ഇപ്പോൾ ഇത് സംയോജിപ്പിച്ച് 3 ന്റെ ഫിബനാച്ചി 2 എന്ന് ലഭിക്കും ഇപ്പോൾ നമ്മൾ ഫിബനാച്ചി 4 ൽ പോയി നമ്മൾ ഫിബനാച്ചി 4ന്റെ ഇടതു ഭാഗത്തുള്ളത് കണക്കാക്കി നമ്മൾ ഇപ്പോൾ വലതുഭാഗത്ത് കണക്കാക്കണം ഇപ്പോൾ സംഭവിക്കുന്നത് വാല്യൂ ഇതിനകം തന്നെ അറിയാമെങ്കിലും 2 ന്റെ ഫിബൊനാച്ചി വീണ്ടും കണക്കുകൂട്ടേണ്ടതുണ്ട് ഫിബൊനാച്ചി ഓഫ് 2 കോൾ 1 0 എന്നിവ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം 1 0 എന്നീ വാല്യൂസ് വീണ്ടും കൊണ്ടുപോയി അവയെ കൂട്ടിച്ചേർക്കുകയും 1 നേടുകയും ചെയ്യുക ഇപ്പോൾ നമുക്ക് 4 ന്റെ ഫിബൊനാച്ചി 2 പ്ലസ് 1 3 ആണെന്ന് കണക്കാക്കാം ഇപ്പോൾ നമ്മൾ ഒടുവിൽ നമ്മൾ തിരികെ യഥാർത്ഥ കോൾ എത്തി ഫിബനാച്ചി ഓഫ് 4 ഫിബനാച്ചി ഓഫ് 3 നമ്മൾ ഇപ്പോൾ 4പൂർത്തിയാക്കി ഇനി ഫിബനാച്ചി 3 ചെയ്യണം നമ്മൾ ഇതിനകം ഫിബനാച്ചി 3 കണക്കാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഫംഗ്ഷനെ വീണ്ടും വിളിക്കേണ്ടി വരും നമുക്ക് വീണ്ടും ഈ ഫുൾ ട്രീ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ടിവരും എല്ലാ വഴികളിലൂടെയും താഴേക്ക് പോകുക എല്ലാ വഴികളിലൂടെയും മുകളിലേക്ക് പോകുക ഒടുവിൽ 3 ന്റെ ഫിബൊനാച്ചി തീർച്ചയായും അതേ ഉത്തരം തന്നെ നൽകാം അതായത് 2 നമുക്ക് ഇതിനകം ഇത് അറിയാമായിരുന്നു പക്ഷേ നമ്മൾ ആ കാര്യം അറിഞ്ഞ വസ്തുത മുതലെടുക്കില്ല ഈ രീതിയിൽ നമുക്ക് 3 പ്ലസ് 2 ലഭിക്കുന്നു 5 ന്റെ ഫിബൊനാച്ചി 5 ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീണ്ടും വീണ്ടും പലതും ചെയ്യുന്നു എന്നതാണ് ഈ പ്രത്യേക കണക്കുകൂട്ടലിൽ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം 3 ന്റെ ഫിബൊനാച്ചി ആണ് അതേ ആവർത്തിച്ചുള്ള കണക്കുകൂട്ടലിന്റെ ഫലമായി തത്ത്വത്തിൽ നമുക്ക് n മൈനസ് 1 സബ് പ്രോബ്ലെംസ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് fib ഓഫ് 5 ഉണ്ടെങ്കിൽ നമുക്ക് fib ഓഫ് 4 fib ഓഫ് 3 ന്റെ fib ഓഫ് 2 തുടങ്ങിയവ ആവശ്യമാണ് fib ഓഫ് 0 ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ N സബ് പ്രോബ്ലെം എന്നാൽ ചില സബ് പ്രോബ്ലെം 3 ന്റെ ഫിബൊനാച്ചി പോലുള്ളവ നമ്മൾ ആവർത്തിച്ച് കണക്കുകൂട്ടുന്നു തൽഫലമായി ഓർഡർ n യഥാർത്ഥ പ്രോബ്ലെംസ് മാത്രമേ ഉള്ളൂവെങ്കിലും എക്സ്പോണൻഷ്യൽ സബ് പ്രോബ്ലെംസ് നമ്മൾ പരിഹരിക്കേണ്ടി വരുന്നു ഒരു ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസിന്റെ റിക്കേഴ്സീവ് നടപ്പാക്കലിൽ നിന്ന് മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സബ് പ്രോബ്ലെം പുനർമൂല്യനിർണയം ഒരിക്കലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇത് ചെയ്യാൻ എളുപ്പമാണ് മുമ്പ് പരിഹരിച്ച സബ് പ്രോബ്ലെം നമുക്ക് ഓർമിക്കാൻ കഴിയും എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്കണക്കുകൂട്ടുന്നതിനുപകരം നമ്മൾ ഇതിനകം കണക്കാക്കിയ വാല്യൂ വീണ്ടും നോക്കുക എന്നതാണ് നമുക്ക് വേണ്ടത് ഒരു തരം ടേബിൾ ആണ് നമ്മൾ കണക്കാക്കിയ വാല്യൂസ് സംഭരിക്കുന്ന ഒരു ടേബിൾ നമ്മൾ പോയി ഒരു വാല്യൂ കണക്കാക്കുന്നതിനുമുമ്പ് നമ്മൾ ആദ്യം ടേബിൾ പരിശോധിക്കുന്നു ടേബിളിൽ ഒരു ഉത്തരമുണ്ടെങ്കിൽ നമ്മൾ ടേബിളിലെ ഉത്തരം എടുത്ത് മുന്നോട്ട് പോകുന്നു ടേബിളിൽ ഉത്തരം ഇല്ലെങ്കിൽ നമ്മൾ റിക്കേഴ്സീവ് ഡെഫിനിഷ്യൻ ചെയ്ത് അത് കണക്കുകൂട്ടുന്നു തുടർന്ന് നമ്മൾ ടേബിളിലേക്ക് ചേർക്കുന്നു ഈ ടേബിളിനെ സാധാരണയായി ഓർമിക്കാനുള്ള മെമ്മറി ടേബിൾ എന്ന് വിളിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് ഈ വാക്ക് മെമ്മോഐസേഷൻ ലഭിക്കും ഇത് യഥാർത്ഥത്തിൽ മെമ്മോ എന്നാണ് മെമോറൈസേഷൻ എന്നല്ല ഇതിന്റെ അർത്ഥം സ്വയം ഒരു മെമ്മോ എഴുതുക എന്നാണ് മെമ്മോ എന്നാൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് സ്വയം ഇതിന് മുമ്പ് ഈ കാര്യം നടന്നു എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ എഴുതുക നമ്മൾ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ കണക്കുകൂട്ടുമ്പോൾ വാല്യൂസ് ഒരു സമയം ഓരോന്ന് വീതം കണക്കുകൂട്ടുന്നു കണക്കുകൂട്ടുന്നതിനനുസരിച്ച് അവ ഒരു ടേബിളിൽ സൂക്ഷിക്കുകയും നമ്മൾ വീണ്ടും കണക്കുകൂട്ടുന്നതിനുമുമ്പ് ടേബിൾ നോക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് മെമ്മോഐസേഷൻ നമ്മൾ ഒരു ടേബിൾ സൂക്ഷിക്കുകയാണെങ്കിൽ 5 ന്റെ ഫിബൊനാച്ചിയുടെ കണക്കുകൂട്ടൽ എങ്ങനെ പോകും ഇതാണ് നമ്മുടെ ടേബിൾ നമുക്ക് ഒരു ടേബിൾ ഉണ്ട് അവിടെ ചില ക്രമത്തിൽ ഇത് ഇപ്പോൾ ശരിക്കും പ്രശ്നമല്ല ചില ക്രമത്തിൽ k യുടെ ഫിബൊനാച്ചി കണ്ടെത്തുമ്പോൾ നമ്മൾ അത് റെക്കോർഡുചെയ്യുന്നു ഈ ടേബിൾ ശൂന്യമാണെന്ന് ശ്രദ്ധിക്കുക അടിസ്ഥാന കേസ് ആയ 0 ന്റെ ഫിബൊനാച്ചി 1 ന്റെ ഫിബൊനാച്ചി എന്നിവ യഥാക്രമം 0 ഉം 1 ഉം ആണെന്ന് നമുക്കറിയാമെങ്കിലും നിങ്ങൾക്കത് അറിയാമെന്ന് നമ്മൾ കരുതുന്നില്ല കാരണം നമ്മൾ ആദ്യമായി ബേസ് കേസ് എത്തുമ്പോൾ ഇത് പുറത്തുവരും അത് റിക്കേഴ്സീവ് ഡെഫിനിഷ്യൻസിൽ നിന്ന് പുറത്തുവരും അത് എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് നമ്മൾ പതിവുപോലെ ഫിബനാച്ചി ഓഫ് 5 ആരംഭിക്കാൻ പോകുന്നു അത് 4 3 ചെയ്യാൻ പറയുന്നു 4 3 2 ചെയ്യാൻ പറയുന്നു 3 പറയുന്നു 2 1 ചെയ്യാൻ ഇപ്പോൾ 2 പറയുന്നു 1 0 ചെയ്യാൻ നമ്മുടെ അടിസ്ഥാന കേസിൽ ഫങ്ഷന്റെ അടിസ്ഥാന കേസ് fib ഓഫ് 1 1 ആണെന്ന് നമുക്ക് തിരികെ ലഭിക്കും നമ്മൾ ഇത് ടേബിളിൽ സൂക്ഷിക്കുന്നു ഇത് നമ്മൾ യഥാർത്ഥത്തിൽ കണക്കാക്കിയ ആദ്യ മൂല്യമാണ് അടിസ്ഥാന കേസിൽ നമ്മൾ അത് അറിഞ്ഞതായി കരുതിയില്ലെന്ന് ശ്രദ്ധിക്കുക നമ്മൾ അത് ടേബിളിൽ വച്ചു അതേ രീതിയിൽ fib ഓഫ് 0 0 ആണ് നമ്മൾ ഇത് മുമ്പ് അറിഞ്ഞിരുന്നില്ല നമ്മൾ അത് ടേബിളിൽ വച്ചു ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് വന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു fib ഓഫ് 2 ലഭ്യമാണെന്ന് നമുക്ക് ഇത് 1 പ്ലസ് 0 1ആണ് നമ്മൾ അത് ടേബിളിൽ സൂക്ഷിക്കുന്നു K ഈക്വൽ റ്റു 2 ന് fib ഓഫ് k 1 ആണെന്നും നമ്മൾ പറയുന്നു ഇപ്പോൾ നമ്മൾ fib ഓഫ് 3 ലേക്ക് മടങ്ങുന്നു ഇപ്പോൾ നമ്മൾ താഴേക്ക് പോകുകയും അത് fib ഓഫ് 1 വീണ്ടും കണക്കുകൂട്ടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് ഒരു അടിസ്ഥാന കേസ് ആണെങ്കിലും നമ്മൾ ആ വസ്തുത ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മൾ ആദ്യം ടേബിളിൽ നോക്കിയാൽ k ഈക്വൽ റ്റു 1 എന്ന ഒരു എൻട്രി ഉണ്ടോ എന്ന് പറയുന്നു അതെ ഉണ്ട് നമ്മൾ അത് എടുക്കുന്നു നമ്മൾ ഓറഞ്ച് കളറിൽ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നു ഈ വാല്യൂ യഥാർത്ഥത്തിൽ വീണ്ടും കണക്കാക്കിയില്ലഎന്നാൽ ടേബിളിൽ നോക്കി1 പ്ലസ് 1 മുതൽ അങ്ങനെ നമ്മൾ ഇപ്പോൾ 3 ന്റെ ഫിബനാച്ചി 2 ആണ് എന്ന് കിട്ടി ഇപ്പോൾ നമ്മൾ മുകളിൽ 4 ന്റെ ഫിബനാച്ചിയിൽ തിരികെ ചെന്നു അതിന്റെ സബ് പ്രോബ്ലെങ്ങളുടെ രണ്ടാം പകുതി കണക്കുകൂട്ടാൻ അതു ആവശ്യപ്പെടുന്നു അതായത് 2 ന്റെ ഫിബൊനാച്ചി നമ്മുടെ ടേബിളിൽ 2 ന് ഒരു എൻട്രി ഉണ്ടെന്ന് വീണ്ടും കാണാം നമ്മൾ ഇത് ഓറഞ്ചിൽ അടയാളപ്പെടുത്തുന്നു കൂടാതെ കണക്കുകൂട്ടൽ നടത്തിയപ്പോൾ മുമ്പ് ചെയ്തതുപോലെ ട്രീ വീണ്ടും വികസിപ്പിക്കാതെ വീണ്ടും കണക്കാക്കാതെ നമ്മൾ ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കുന്നു ഇപ്പോൾ 2 പ്ലസ് 1 എന്നത് 3 ആണ് നമുക്ക് ഇപ്പോൾ 4 ന്റെ ഫിബൊനാച്ചി ഉണ്ട് ഇപ്പോൾ തിരിച്ചുപോയി മറ്റ് ബ്രാഞ്ച് ഫിബൊനാച്ചി 3 കണക്കുകൂട്ടണം പക്ഷേ വീണ്ടും 3 ന് ഒരു ആർഗ്യുമെന്റ് കെ നമ്മുടെ ടേബിളിൽ ഉണ്ട് നമുക്ക് ഇവിടെ 3 ന് ഒരു എൻട്രി ഉണ്ട് നമുക്ക് 3 ന്റെ ഫിബൊനാച്ചി നോക്കിയാൽ ഇത് രണ്ട് ആണെന്ന് പറയാം നമ്മൾ വീണ്ടും ഓറഞ്ചിൽ അടയാളപ്പെടുത്തുന്നു ഇപ്പോൾ നമുക്ക് 5 ന്റെ ഫിബൊനാച്ചി ഉണ്ട് 3 പ്ലസ് 2 അത് 5 ആണ് ഇപ്പോൾ ഇത് ഒരു പുതിയ മൂല്യമാണ് നമ്മൾ അത് നൽകുന്നു നമ്മൾ കണക്കാക്കിയ ഓരോ മൂല്യവും നമ്മൾ ട്രീ വികസിപ്പിച്ചു അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷ്യൻസ് അനുസരിച്ച് ഒരു തവണ മാത്രമേ അടിസ്ഥാന കേസ് നോക്കുകയുള്ളൂ എന്നത് ശ്രദ്ധിക്കുക തുടർന്നുള്ള ഓരോ സമയത്തും നമുക്ക് വാല്യൂ ആവശ്യമായിരുന്നു നമ്മൾ അത് ടേബിളിൽ നോക്കി കൂടാതെ പരിഹരിക്കേണ്ട സബ് പ്രോബ്ലെം അനുസരിച്ചു എത്രയോ മടങ്ങ് ടേബിൾ വളരുന്നുവെന്നും കാണുക ഒരു സബ് പ്രോബ്ലെം നമ്മൾ രണ്ടുതവണ പരിഹരിച്ചില്ലെന്നും നമുക്ക് കാണാൻ കഴിയും രണ്ടുതവണ കമ്പ്യൂട്ട് ചെയ്തില്ല ടേബിൾ നോക്കി കൊണ്ട് നമ്മൾ അത് പരിഹരിച്ചു നമ്മുടെ ഫിബൊനാച്ചി ടേബിളിൽ ഫിബൊനാച്ചി ഫംഗ്ഷനുകൾ സംയോജിപ്പിക്കുന്നതിനുള്ള വളരെ എളുപ്പമുള്ള ഘട്ടമാണിത് നമ്മൾ ഈ ചുവന്ന കോഡ് ചേർക്കുന്നു പച്ച വരികൾ നേരത്തെ ഉള്ളത് തന്നെയാണ് ഇപ്പോൾ ഫിബൊനാച്ചി പറയുന്നത് നിങ്ങൾക്ക് ഒരു നമ്പർ ലഭിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ടേബിൾ നോക്കുക എന്നതാണ് നിർവചിച്ചിരിക്കുന്ന n ന്റെ ഫിബൊനാച്ചി എന്ന മൂല്യമുണ്ടെങ്കിൽ ആ വാല്യൂ നൽകുക അല്ലെങ്കിൽ നമ്മൾ റിക്കേഴ്സീവ് കണക്കുകൂട്ടലിലൂടെ കടന്നുപോകുന്നു ഇത് സാധാരണ കണക്കുകൂട്ടലാണ് ഇത് ഒരു റിക്കേഴ്സീവ് കോൾ വിളിക്കുകയും ഒടുവിൽ ഒരു പുതിയ മൂല്യവുമായി വരികയും ചെയ്യും ഇത് ഈ പ്രത്യേക n ന്റെ മൂല്യമാണ് ഈ ഫംഗ്ഷന്റെ ഫലമായി ഈ വാല്യൂ തിരികെ നൽകുന്നതിനുമുമ്പ് നമ്മൾ അത് ടേബിളിൽ സൂക്ഷിക്കുന്നു ഇനിമുതൽ ഈ വാല്യൂ n എപ്പോഴെങ്കിലും വീണ്ടും ഇൻവോക്ക് ചെയ്താൽ നമ്മൾ ഒരിക്കലും കണക്കുകൂട്ടേണ്ട കാര്യം നോക്കേണ്ടതില്ല അത് ടേബിളിൽ ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ ഇത് വളരെ ലളിതമാണ് നിങ്ങൾക്ക് ഫംഗ്ഷൻ കണക്കുകൂട്ടാൻ താൽപ്പര്യപ്പെടുന്ന ഒരു ആർഗ്യുമെൻറ് n ലഭിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ടേബിൾ പരിശോധിക്കുക ടേബിളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ടേബിൾ വാല്യൂ തിരികെ നൽകുന്നു ഇത് ടേബിളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണപോലെ തന്നെ കണക്കുകൂട്ടുന്നതിനായി നിങ്ങളുടെ റിക്കേഴ്സീവ് ഡെഫിനിഷ്യൻ പ്രയോഗിക്കുന്നു ഇത് കണക്കുകൂട്ടിയ ശേഷം നിങ്ങൾ ആദ്യം ഇത് ടേബിളിൽ സൂക്ഷിക്കുന്നു ഇപ്പോൾ ഭാവിയിൽ ഈ ഫംഗ്ഷനിലേക്കുള്ള ആക്സസ് വന്നാൽ ഈ ആവർത്തനം ചെയ്യാതെ തന്നെ പ്രവർത്തിക്കുകയും തുടർന്ന് നിങ്ങൾക്ക് ലഭിച്ച വാല്യൂ തിരികെ നൽകുകയും ചെയ്യും ഏത് ആർഗ്യുമെൻറിന്റെ കോമ്പിനേഷനും ഇത് പ്രവർത്തിക്കും പൈത്തൺ ടെംസിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ ആവശ്യമാണ് ഓരോ ആർഗ്യുമെൻറിന്റെ കോമ്പിനേഷനും ഡിക്ഷണറി ആവശ്യമാണ് ആ വാല്യൂ മുൻപ് കണക്കുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ കീ നമ്മുടെ ടേബിളിൽ ഉണ്ടാകും പൈത്തൺ ടേബിൾ ഡിക്ഷ്ണറി ആണ് ഒരു ലിസ്റ്റ് അല്ല കാരണം ആർഗ്യുമെന്റ്സ് എന്ത് വേണമെങ്കിലും ആകാം അവയിൽ ചിലത് സ്ട്രിംഗ് ആകാം ചിലത് അക്കങ്ങളാകാം അവ തുടർച്ചയായിരിക്കേണ്ടതില്ല അടിസ്ഥാനപരമായി ആർഗ്യുമെൻറുകളുടെ പ്രത്യേക കോമ്പിനേഷൻ നൽകുമ്പോൾ ആ കീകളുടെ കോമ്പിനേഷൻ ഡിക്ഷ്ണറിയിൽ ഉണ്ടോയെന്ന് നമ്മൾ അന്വേഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് തിരിച്ച് നൽകുന്നു അല്ലെങ്കിൽ ഈ കോമ്പിനേഷനായി നമ്മൾ ഒരു പുതിയ വാല്യൂ കണക്കുകൂട്ടി സംഭരിക്കുകയും പിന്നീട് തിരികെ നൽകുകയും ചെയ്യുന്നു നമ്മൾ കുറച്ചൊക്കെ നോക്കി പൈത്തനിൽ ഇതൊക്കെ ശരിയായി എവിടെ എഴുതാം എവിടെ നമ്മൾ ചില ഒഴിവാക്കലുകൾ നടത്തുന്നു എന്നിങ്ങനെ പക്ഷേ ഇതൊക്കെ നാം എന്തു ചെയ്യണം എന്നതിന്റെ ഒരു ചട്ടക്കൂട് മാത്രമാണ് ഈ ആഴ്ച രണ്ട് പ്രഭാഷണങ്ങളിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കപ്പെടുന്ന പ്രധാന വിഷയത്തിലേക്ക് ഇത് നമ്മളെ കൊണ്ടുവരുന്നു ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഈ മെമ്മോഐസ്ഡ് റിക്കർഷനെ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമാണ് വാല്യൂസ് കണക്കാക്കുമ്പോൾ തന്നെ അത് ടേബിളിൽ സൂക്ഷിക്കുമെന്ന് ഈ മെമ്മോഐസ്ഡ് റിക്കർഷൻ പറയുന്നു ഇപ്പോൾ ഒരു ഇൻഡക്റ്റീവ് ഡെഫനിഷനിൽ നമ്മൾ അടിസ്ഥാന കേസിൽ പോയി അവിടെ നിന്നും പുറകിലേക്ക് നമ്മുടെ കേസ് എത്തുന്നത് വരെ ചെയ്തു വരണം അതിനർത്ഥം എല്ലായ്പ്പോഴും ചില വാല്യൂസ് ചില അടിസ്ഥാന വാല്യൂസ് ഉണ്ട് ഇതിനായി കൂടുതൽ കണക്കുകൂട്ടൽ നടത്തേണ്ടതില്ല ഈ വാല്യൂസ് നമുക്ക് സ്വാഭാവികമായി ലഭ്യമാണ് നമുക്ക് ചില പ്രോബ്ലെംസ് ഉണ്ട് അവയ്ക്ക് സബ് പ്രോബ്ലെംസ് ഉണ്ട് കൂടാതെ മറ്റ് ചിലതിന് സബ് പ്രോബ്ലെംസ് ഇല്ല ഒരു പ്രോബ്ലെത്തിന് ഒരു സബ് പ്രോബ്ലെം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലെം ഉടനെ ചെയ്യാൻ കഴിയില്ല അതിന്റെ സബ് പ്രോബ്ലെംസ് ചെയ്യണം ഇപ്പോൾ ഫിബൊനാച്ചി 4 3 എന്നിവ പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് അഞ്ചിന്റെ ഫിബൊനാച്ചി ലഭിക്കില്ല എന്നാൽ 1 ന്റെ ഫിബൊനാച്ചി അല്ലെങ്കിൽ 0 ന്റെ ഫിബൊനാച്ചി എന്ന അടിസ്ഥാന കേസ് ആണെങ്കിൽ നമുക്ക് സബ് പ്രോബ്ലെംസ് ഒന്നുമില്ല നമുക്ക് അവ നേരിട്ട് പരിഹരിക്കാനാകും ഇതൊരു തരം ഡിപെൻഡൻസി ആണ് ഡിപൻഡൻസി ഓർഡറിൽ സബ് പ്രോബ്ലെംസ് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് മറ്റൊന്നിനെ ആശ്രയിച്ചുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതുവരെ നമുക്ക് അത് നേടാനാവില്ല എന്നാൽ ഈ ഡിപൻഡൻസി ഓർഡർ അസൈക്ലിക്ക് ആയിരിക്കണമെന്ന് ഒരു ചെറിയ ചിന്ത നമ്മോട് പറയുന്നു നമുക്ക് ഒരു സൈക്ലിക് ഡിപെൻഡൻസി ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ ഒരു വാല്യൂ 5 3 നെ ആശ്രയിക്കുന്നു വാല്യൂ 31 നെ ആശ്രയിച്ചിരിക്കുന്നു 1 യഥാർത്ഥത്തിൽ 5 നെ ആശ്രയിക്കുന്നു ഈ കാര്യം പരിഹരിക്കാൻ ഒരു വഴിയില്ല എല്ലായ്പ്പോഴും ഒരു ആരംഭ പോയിന്റ് ഉണ്ടാകും കൂടാതെ റിക്കേഴ്സീവ് കോളുകളിലൂടെ പോകുന്നതിനുപകരം നമുക്ക് ഡിപൻഡൻസികളുടെ ക്രമത്തിൽ സബ് പ്രോബ്ലെംസ് നേരിട്ട് പരിഹരിക്കാൻ കഴിയും നമുക്ക് ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ പിന്തുടരേണ്ടതില്ല നമുക്ക് നേരിട്ട് പറയാൻ കഴിയും പരിഹരിക്കാൻ മറ്റു സബ് പ്രോബ്ലെംസ് ആവശ്യമില്ലാത്ത എല്ലാ സബ് പ്രോബ്ലെംസ് എന്താണെന്ന് എന്നോട് പറയുക സ്വന്തമായി ഇവയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവ ഏതാണ് അവ പരിഹരിക്കുക ഇത് ഐട്രേറ്റിവ് വഴി നൽകുന്നു 5 ന്റെ ഫിബൊനാച്ചിക്ക് വേണ്ടിയുള്ള സബ് പ്രോബ്ലെം നോക്കുകയാണെങ്കിൽ ഇതിന് ഈ സബ് പ്രോബ്ലെം എല്ലാം ആവശ്യമാണെന്ന് അത് പറയുന്നു എന്നാൽ ഡിപെൻഡൻസി വളരെ നേരായതാണ് 5 എന്നത് 4 3 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു 4 3 2 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു 3 2 1 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു 2 1 0 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ 0 1 എന്നിവയ്ക്ക് ഡിപെൻഡൻസി ഇല്ല നമുക്ക് ചുവടെ ആരംഭിക്കാം തുടർന്ന് സ്വയം പ്രവർത്തിക്കാം നമുക്ക് 0 ന്റെ ഫിബൊനാച്ചിക്ക് ഡിപെൻഡൻസി ഇല്ല എന്ന് പറയാം ഞാൻ അതിനായി ഒരു വാല്യൂ എഴുതട്ടെ 1 ന്റെ ഫിബൊനാച്ചിക്ക് ഡിപെൻഡൻസി ഇല്ല ഞാൻ അതിനായി ഒരു വാല്യൂ എഴുതട്ടെ 2 ന്റെ ഫിബൊനാച്ചിക്ക് ആവശ്യമായ രണ്ട് കാര്യങ്ങളും കണക്കുകൂട്ടിയതായി ഇപ്പോൾ നമ്മൾ കാണുന്നു 5 ൽ നിന്ന് ഇതിലേക്ക് പോകാതെ എനിക്ക് നേരിട്ട് ടേബിളിൽ fib ഓഫ് 2 എഴുതാൻ കഴിയും ഞാൻ 5 ൽ നിന്ന് താഴേക്ക് വരുന്നില്ല നമ്മൾ നേരിട്ട് ടേബിൾ പൂരിപ്പിക്കുകയാണ് ഏതൊക്കെ വാല്യൂസ് ഏതിനെയൊക്ക ആശ്രയിച്ചിരിക്കുന്നു എന്നതിന്റെ ട്രാക്ക് സൂക്ഷിക്കുക നമുക്ക് ഫംഗ്ഷൻ അറിയാമെന്ന് കരുതുക നമുക്ക് ഈ ഡിപൻഡൻസി കണക്കാക്കാനും ഡിപൻഡൻസികൾ തൃപ്തിപ്പെടുമ്പോൾ ആ വാല്യൂസ് കണക്കാക്കാനും കഴിയും ഇപ്പോൾ നമുക്ക് 1 ഉം 2 ഉം ഉണ്ട് നമുക്ക് 3 ന്റെ ഫിബൊനാച്ചി കണക്കാക്കാം നമ്മൾ അത് കണക്കുകൂട്ടുന്നു നമുക്ക് 3 ഉം 4 ഉം ഉണ്ട് നമുക്ക് 2 ഉം മൂന്ന് ഉം കണക്കു കൂട്ടാം നമുക്ക് 4 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടാൻ കഴിയും നമ്മൾ കണക്കുകൂട്ടുന്നു അവസാനമായി നമുക്ക് 2 ഉം fib ഓഫ് 3 ഉം fib ഓഫ് 4 ഉം ഉണ്ട് നമുക്ക് fib ഓഫ് 5 ലഭിക്കും നിങ്ങൾക്ക് കാണാനാകുന്ന ഈ വാല്യൂ ഇപ്പോൾ ഒരു ലീനിയർ കണക്കുകൂട്ടലായി മാറുന്നു എനിക്ക് 0 മുതൽ 5 വരെ പോയി വാല്യൂസ് പൂരിപ്പിക്കാം വാസ്തവത്തിൽ ഇതാണ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് പത്താമത്തെ ഫിബൊനാച്ചി നമ്പർ ചോദിക്കുമ്പോൾ എനിക്ക് അത് എഴുതാം എനിക്ക് 0 0 പ്ലസ് 1 1 ആണെന്നും 1 പ്ലസ് 1 2 ആണെന്നും 2 പ്ലസ് 1 3 5 8 13 21 34 ആണെന്നും എനിക്ക് പറയാൻ കഴിയും നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ റിക്കർഷൻ ഉണ്ടെങ്കിൽ ഇത് വളരെ സങ്കീർണ്ണമായ പ്രക്രിയയല്ല എന്ന് തോന്നുന്നു എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും കാരണം ഞാൻ ചെയ്യേണ്ടത് വാല്യൂസ് ഒരു ശ്രേണിയിൽ സൃഷ്ടിക്കുന്നത് തുടരുകയാണ് മാത്രമല്ല ഇത് ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ ഗുണമാണ് ഇത് ഈ റിക്കർഷനെ ഒരുതരം ഐട്രേറ്റിവ് പ്രക്രിയയായി പരിവർത്തനം ചെയ്യുന്നു അവിടെ നിങ്ങൾ സാധാരണയായി പൂരിപ്പിക്കുന്ന വാല്യൂസ് റിക്കർഷൻ വഴി MEM ടേബിളിൽ എഴുതുന്നു ഡിപെൻഡൻസി ഇല്ലാത്തതിൽ തുടങ്ങി ഐട്രേറ്റിവ് ആയി പൂരിപ്പിക്കുന്നു അപ്പോൾ ഫിബൊനാച്ചിയുടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പതിപ്പ് ഈ നീല കളർ ഐട്രേറ്റിവ് ആണ് 0 1 എന്നീ വാല്യൂസിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് നമ്മൾ പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് n 0 അല്ലെങ്കിൽ 1 ആണെങ്കിൽ നിങ്ങൾ nറിട്ടേൺ ചെയ്യുക എന്നതാണ് ഇവിടെ നമ്മൾ ഇത് നേരിട്ട് ടേബിളിൽ സൂക്ഷിക്കുന്നു fib ടേബിൾ ഓഫ് 0 0 ആണെന്നും fib ടേബിൾ ഓഫ് 1 1 ആണെന്നും നമ്മൾ പറയുന്നു എന്നിട്ട് നമ്മൾ 2 മുതൽ n വരെ പോകുന്നു പൈത്തൺ നൊട്ടേഷനിൽ ശ്രേണി അവസാനം n പ്ലസ് 1 ആണ് ഓരോ ഘട്ടത്തിലും നമ്മൾ ഇതിനകം കണക്കാക്കിയ i ത് വാല്യൂ സം ഓഫ് i മൈനസ് 1 i മൈനസ് 2 വാല്യൂസ് ആണെന്ന് കണക്കാക്കാം ഇത് നമുക്ക് നേരത്തെ അറിയാം കാരണം നമ്മൾ ഈ പ്രത്യേക ക്രമത്തിൽ പോകുന്നു ഡിപൻഡൻസി ഓർഡർ 0 മുതൽ n വരെ പോകുന്നു എന്ന് നമുക്കറിയാം അവസാനമായി നമുക്ക് ആവശ്യമായ ഉത്തരം n ത് എൻട്രിയാണ് നമ്മൾ അത് തിരികെ നൽകുന്നു ചുരുക്കത്തിൽ റിക്കർഷൻ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള അടിസ്ഥാന ആശയം എന്തെന്നാൽ ഒരിക്കലും ഒരു കാര്യം രണ്ടുതവണ കണക്കുകൂട്ടരുത് എന്നതാണ് നമ്മൾ രണ്ടു തവണ ഒരിക്കലും കണക്കുകൂട്ടാതിരിക്കാൻ നമ്മൾ കണക്കുകൂട്ടുന്ന വാല്യൂസ് ഒരു മെമ്മോ ടേബിളിൽ സൂക്ഷിക്കുന്നു ഇതിനെ മെമ്മോഐസേഷൻ എന്ന് വിളിക്കുന്നു ഒരു റിക്കേഴ്സീവ് കോൾ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലായ്പ്പോഴും ടേബിൾ നോക്കുന്നു അല്ലെങ്കിൽ ഇത് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും നമ്മൾ റിക്കേഴ്സീവ് കോളുകൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നു അതിനു പകരം ഇത് നമ്മൾ നേരിട്ട് ടേബിളിൽ ഡിപൻഡൻസി ക്രമത്തിൽ പൂരിപ്പിക്കുന്നു ഡിപൻഡൻസി അസൈക്ലിക്ക് ആയിരിക്കണം അല്ലാത്തപക്ഷം ഈ സബ് പ്രോബ്ലെംസ് പരിഹരിക്കാനാവില്ല ഇത് റിക്കേഴ്സീവ് മൂല്യനിർണ്ണയത്തെ ഒരു ഐട്രേറ്റിവ് റിക്കേഴ്സീവ് മൂല്യനിർണ്ണയമാക്കി മാറ്റുന്നു ഇത് പലപ്പോഴും കൂടുതൽ കാര്യക്ഷമമാണ്